ഫ്രാക്ചർ ടഫ്നെസ്സിലെ മെറ്റീരിയൽ അനീസോട്രോപി നിങ്ങൾക്കറിയാമോ ഫ്രാക്ചർ മെക്കാനിക്സിൽ മെറ്റീരിയൽ ടെസ്റ്റിംഗിൽ പോലും മെറ്റീരിയൽ അനീസോട്രോപി മെൻഷൻ ചെയ്യുമെന്ന് ഞാൻ സൂചിപ്പിച്ചു പ്ലേറ്റ് സ്റ്റോക്കിൽ നിന്ന് ഒരു സ്പെസിമെൻ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് ഞാൻ ഇതിനകം കാണിച്ചിരുന്നു LTS ദിശകളിലൂടെ പ്രോപ്പർട്ടികൾ എങ്ങനെ മാറുന്നുവെന്നത് നിങ്ങൾ നോക്കുന്നതാണ് ആശയം അതിനാൽ നിങ്ങൾ ക്രാക്കുകൾ ഉള്ള വ്യത്യസ്ത ഓറിയന്റേഷന്റെ സ്പെസിമെൻസ് എടുക്കുകയും ഫ്രാക്ചർ ടഫ്നെസ്സ് ഉചിതമായി കണ്ടെത്തുകയും ചെയ്യുന്നു അതിനാൽ ഇത് ഒരു TL TS LT LS ST അല്ലെങ്കിൽ SL ആണോ എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട് വാസ്തവത്തിൽ ആദ്യത്തെ രണ്ട് എണ്ണം മാത്രം വരയ്ക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു ബാക്കിയുള്ളവ ടേബിളിൽ നിന്ന് പൂരിപ്പിക്കുക നിങ്ങൾ അത് ചെയ്തുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഒരു സർഫേസ് ക്രാക്ക് ഉണ്ടാകുമ്പോൾ LTS ദിശകളുടെ ഫങ്ക്ഷൻ ആയ പ്രോപ്പർട്ടി വേരിയേഷൻ പാർട്ട് ത്രൂ ക്രാക്കിൽ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യും എന്നതിനെ സ്വാധീനിക്കും ST ദിശയ്ക്കുള്ള ടഫ്നെസ്സ് മൂല്യങ്ങൾ LT ദിശയേക്കാൾ 30 മുതൽ 60 ശതമാനം വരെ കുറവായിരിക്കുമെന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ ഒരു പാർട്ട് ത്രൂ ക്രാക്കിന്റെ കാര്യത്തിൽ ഈ വേരിയേഷനുകൾ നിങ്ങൾക്കറിയില്ലെങ്കിൽഗ്രോത്ത് തെറ്റായി പ്രെഡിക്റ്റ് ചെയ്യാം വാസ്തവത്തിൽ ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് പ്രസക്തമായ മറ്റ് സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്നും നമ്മൾ പരിശോധിച്ചു തിരഞ്ഞെടുത്ത മെറ്റീരിയലുകൾക്കായുള്ള ഫ്രാക്ചർ ടഫ്നെസ് മൂല്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫ്രാക്ചർ ടഫ്നെസ്സിന്റെ സാമ്പിൾ മൂല്യങ്ങളും നമ്മൾ പരിശോധിക്കും നമുക്ക് മൂന്ന് സ്പെസിമെനുകൾക്കായി എഴുതാം എനിക്ക് മെറ്റീരിയൽ നൽകിയിട്ടുണ്ട് മെറ്റീരിയൽ ലഭിക്കുന്നതിനുള്ള വിവിധ പ്രോസസ്സുകളാണ് ഇത് നിങ്ങൾക്ക് യിൽഡ് സ്ട്രെങ്ത് MPaയിൽ ഉണ്ട് നമുക്ക് സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ MPa റൂട്ട് മീറ്ററിൽ ഉണ്ട് അതിനാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് വളരെ ഹൈ സ്ട്രെങ്ത് അലോയ്കളെക്കുറിച്ചാണ് 1280 ൽ നിന്നുള്ള ലിസ്റ്റ് മാറ്റങ്ങൾ MPaയിൽ ഉള്ള യിൽഡ് സ്ട്രെങ്ത് ഏറ്റവും കുറഞ്ഞ മൂല്യമാണെന്ന് നിങ്ങൾ കാണുന്നു ഇത് കുറഞ്ഞത് ഈ പേജിൽ 1785 വരെ ഉയരുന്നു സ്റ്റീലിന്റെ വിവിധ കാറ്റഗറികൾക്കായി സ്റ്റീൽ 4340 ന് യിൽഡ് സ്ട്രെങ്ത് 1495 മുതൽ 1640 MPa വരെയാണ് KIC 50 മുതൽ 63 MPa റൂട്ട് മീറ്ററായി നൽകിയിരിക്കുന്നു മാറാജിംഗ് സ്റ്റീലും വളരെ പ്രധാനമാണ് അതിനാൽ നിങ്ങൾക്ക് യിൽഡ് സ്ട്രെങ്ത് 1785 MPa ആയിരിക്കുമ്പോൾ മറ്റ് സ്റ്റീലിനായി എഴുതാം ആ സ്റ്റീലിനായി KIC 88 മുതൽ 97 MPa റൂട്ട് മീറ്റർ വരെ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു ഇത് നിങ്ങൾക്ക് ഒരു ഫ്ളെവർ നൽകുന്നു നിങ്ങൾ ശരിക്കും ഉയർന്ന കരുത്തുള്ള അലോയ്കളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സ്റ്റീലിന്റെ കാര്യത്തിൽ ഫ്രാക്ചർ ടഫ്നെസ്സിന്റെ ടിപ്പിക്കൽ വേരിയേഷൻ എന്താണ് ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് അലുമിനിയം ഉണ്ട് നമുക്ക് വീണ്ടും ഈ രണ്ട് അലോയ്കൾക്ക് കൂടി നോക്കാം ഇവിടെ വീണ്ടും നിങ്ങൾ കണ്ടെത്തുന്നത് ഏറ്റവും കുറഞ്ഞ യിൽഡ് സ്ട്രെങ്ത് 345 MPa പോലെയാണ് ഇതിന് താഴെയുള്ള ഏതെങ്കിലും മെറ്റീരിയലിനെക്കുറിച്ചല്ല നിങ്ങൾ സംസാരിക്കുന്നത് 2014 അലുമിനിയത്തിന് യിൽഡ് സ്ട്രെങ്ത് 435 മുതൽ 470 MPa വരെയാണ് ഫ്രാക്ചർ ടഫ്നെസ്സ് സ്റ്റീലിനേക്കാൾ വളരെ താഴെയാണ് നിങ്ങൾക്ക് ഇത് 23 മുതൽ 27 MPa റൂട്ട് മീറ്റർ വരെ മാത്രമേയുള്ളൂ അതിനാൽ അറിവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം അലുമിനിയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റീലിനുള്ള ഫ്രാക്ചർ ടഫ്നെസ്സ് വളരെ ഉയർന്നതാണ് അതിനാൽ നിങ്ങൾ അലുമിനിയത്തിന്റെ മറ്റൊരു വിഭാഗം എടുക്കുന്നു നിങ്ങൾ 2020 നോക്കിയാൽ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള യിൽഡ് സ്ട്രെങ്ത് 525 മുതൽ 540 വരെ ആണ് എന്നാൽ ഫ്രാക്ചർ ടഫ്നെസ്സിൽ വലിയ മാറ്റമൊന്നുമില്ല ഇത് 22 മുതൽ 27MPa റൂട്ട് മീറ്ററാണ് മെറ്റീരിയലിന്റെ ഓരോ വിഭാഗത്തിനും നിങ്ങൾ ഫ്രാക്ചർ ടഫ്നെസ്സ് കണ്ടെത്തണം യിൽഡ് സ്ട്രെങ്തിൽ നിന്നും ഫ്രാക്ചർ ടഫ്നെസ്സ് വാല്യൂവിനു ഒരു ബന്ധവുമില്ല യിൽഡ് സ്ട്രെങ്ത് വർദ്ധിക്കുകയാണെങ്കിൽ ഫ്രാക്ചർ ടഫ്നെസ്സിന്റെ മൂല്യവും വർദ്ധിക്കുന്നു അത് ആവശ്യമില്ല ഇവ രണ്ട് സ്വതന്ത്ര പാരാമീറ്ററുകളാണ് വാസ്തവത്തിൽ യിൽഡ് സ്ട്രെങ്തിന്റെ ഉയർന്ന മൂല്യവും ടഫ്നെസ്സിന്റെ ഉയർന്ന മൂല്യവുമുള്ള വസ്തുക്കൾ വികസിപ്പിക്കുക എന്നത് മെറ്റീരിയൽ ശാസ്ത്രജ്ഞർക്ക് നൽകിയിട്ടുള്ള കടമയാണ് ഇത് അവർക്ക് ഒരു വെല്ലുവിളിയാണ് അവർ അതിൽ പ്രവർത്തിക്കുകയും വിദേശ വസ്തുക്കൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു പ്ലെയിൻ സ്ട്രെസ് ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗ് ഇത് നമ്മൾ നോക്കിയ ശേഷം പ്ലെയിൻ സ്ട്രെസ് ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിലേക്ക് നീങ്ങും പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ് നമ്മൾ നേരത്തെ കണ്ടു പ്ലെയിൻ സ്ട്രെയിൻ സാഹചര്യത്തിൽ നമ്മൾ സ്റ്റാൻഡേർഡ് സ്പെസിമെനുകൾ കണ്ടു ഫ്രാക്ചർ ടഫ്നെസ്സ് വിലയിരുത്തുന്നതിന് നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് നടപടിക്രമമുണ്ട് മറുവശത്ത് പ്ലെയിൻ സ്ട്രെസ് ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിനായി സ്റ്റാൻഡേർഡ് സ്പെസിമെനുകളൊന്നും ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല അതിനാൽ ഇതാണ് വ്യത്യാസം ആളുകൾ എന്തുചെയ്യും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിനായി ഉപയോഗിക്കുന്ന കോംപാക്റ്റ് ടെൻഷൻ സ്പെസിമെനുകളും മറ്റ് സ്പെസിമെനുകളും പ്ലെയിൻ സ്ട്രെസ് ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിന് അനുയോജ്യമല്ല അതിനാൽ ആളുകൾ സെന്റർ ക്രാക്ക്ഡ് പാനലുകൾ ഉപയോഗിക്കുന്നു മറ്റൊരു പ്രധാന കാര്യം നമ്മൾ പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു സ്വാഭാവിക ക്രാക്ക് വികസിപ്പിക്കാം നിങ്ങൾക്ക് സ്വാഭാവിക ക്രാക്ക് ഉപയോഗിച്ച് മാത്രമേ പരിശോധന നടത്താൻ കഴിയൂ അതൊരു വലിയ സർക്കസ് ആയിരുന്നു നിങ്ങൾ ഷെവ്റോൺ നോച്ച് കണ്ടു ഷെവ്റോൺ നോച്ച് എന്തിനാണ് ഉപയോഗിച്ചതെന്ന് നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് സുഖപ്രദമായ ഒരു സ്പെസിമെൻ ലഭിക്കുന്നതിന് വേണ്ടി ക്രാക്കിന്റെ ഉത്ഭവത്തെയും പ്ലെയിനിനെയും നിയന്ത്രിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഫാറ്റിഗ് പ്രീ ക്രാക്കിംഗ് നിയന്ത്രണങ്ങളും മറ്റും ഉണ്ടായിരുന്നു അതിനാൽ ഒരു സോ കട്ട് മതിയാകും പ്ലെയിൻ സ്ട്രെസ് ഫ്രാക്ചർ ടഫ്നെസ്സ് ടെസ്റ്റിംഗിനു ഇളവ് ലഭിക്കാൻ പ്ലെയിൻ സ്ട്രെസ് ടെസ്റ്റിംഗിൽ വളരെ വ്യത്യസ്തമായത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സ്റ്റേബിൾ ഫ്രാക്ചർ ഉണ്ടാകും അതിനുശേഷം ഒരു ക്യാറ്റസ്ട്രോപ്പിക് ഫൈയില്യർ ഉണ്ടാകും അതിനാൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഒരു സോ കട്ട് ഉണ്ടെങ്കിൽ റിയൽ ക്രാക്ക് കാരണം ഇത് ഒരു സ്റ്റേബിൾ ഫ്രാക്ചർ ആയി മാറുന്നു പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ്സിന്റെ കാര്യത്തിൽ ഫാറ്റിഗ് ലോഡിങ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ നാച്ചുറൽ ക്രാക്ക് വികസിപ്പിക്കണം പ്ലെയിൻ സ്ട്രെസ് ടെസ്റ്റിംഗിന്റെ കാര്യത്തിൽ അത്തരമൊരു ആവശ്യകത ആവശ്യമില്ല ഒരു സോ കട്ട് മതിയാകും എന്നാൽ സോ കട്ട് മാത്രമുള്ളവ എത്ര നേർത്തതായിരിക്കണം എന്ന റെക്കമെൻറ്റേഷനുകളും ഉണ്ട് എന്തായിരിക്കണം റൂട്ട് റേഡിയസ് അങ്ങനെ പലതും അതിനാൽ വ്യത്യാസം പ്ലെയിൻ സ്ട്രെസ് സ്പെസിമെനുകൾ ഫാറ്റിഗ് ക്രാക്ക്ഡ് ആക്കേണ്ടതില്ല എന്നാൽ ഇത് മറ്റൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നു നിങ്ങൾക്ക് ഒരു സോ കട്ട് ഉണ്ട് അത് സ്റ്റേബിൾ ഫ്രാക്ചർ മൂലം ഒരു ക്രാക്കായിയി മാറുന്നു തുടർന്ന് ക്യാറ്റസ്ട്രോപ്പിക് ഫൈയില്യർ സംഭവിക്കുന്നു അതിനാൽ പ്ലെയിൻ സ്ട്രെസ് ടെസ്റ്റിംഗിലെ ഒരു ബുദ്ധിമുട്ട് എന്തെന്നാൽ ഫ്രാക്ചർ ഉണ്ടാകുന്ന ക്രാക്ക് ലെങ്ത് കണ്ടെത്തുക എന്നതാണ് അതിൽ ഇററുകൾ ഉണ്ടാകാം അതിനാൽ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ആളുകൾ ആവിഷ്കരിച്ചു അവയെയും നമ്മൾ കാണും അതിനാൽ ഇവിടെ ആവശ്യകതകളിലൊന്ന് നിങ്ങൾക്ക് സ്ലോ ക്രാക്ക് ഗ്രോത്ത് ആവശ്യമാണ് അത് സംഭവിച്ചില്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന സോ കട്ട് അഭികാമ്യമല്ലെന്നതിന്റെ സൂചനയാണ് അതിനാൽ ഏതെങ്കിലും പ്ലെയിൻ സ്ട്രെസ് ടെസ്റ്റിംഗിൽ നിങ്ങൾക്ക് സ്റ്റേബിൾ ഫ്രാക്ചർ ഉണ്ടാകുകയും തുടർന്ന് ക്യാറ്റസ്ട്രോപ്പിക് ഫൈയില്യർ ഉണ്ടാകുകയും വേണം ഇത് സൂചിപ്പിക്കുന്നത് സോ കട്ട് നോക്കുക എന്നതാണ് സോ കട്ട് അഭികാമ്യമായ അളവിലാണെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും സ്റ്റേബിൾ ഫ്രാക്ചർ കാണും അതിനുശേഷം ക്യാറ്റസ്ട്രോപ്പിക് ഫൈയില്യറും ഉണ്ടാകും അതിനാൽ പ്രശ്നങ്ങളിലൊന്ന് ക്രാക്ക് ടിപ്പിലെ ബ്ലെൻഡിങ് ആണ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ കാരണം നിങ്ങൾക്ക് മതിയായ ഒരു സോ കട്ട് ഉണ്ടെങ്കിൽ പ്ലെയിൻ സ്ട്രെസ് സിറ്റുവേഷന്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ പ്ലാസ്റ്റിക് സോൺ ഉണ്ടാകും കൂടാതെ ക്രാക്ക് ടിപ്പ് ബ്ലെൻന്റ ആയേക്കാം അതിനാൽ അത്തരം സാഹചര്യങ്ങളിലും ഷാർപ്പർ ക്രാക്കുകൾ ഉണ്ടാകുന്നുവെന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് നോക്കു നിങ്ങൾ ഫോട്ടോലാസ്റ്റിക് പരീക്ഷണത്തിലേക്ക് പോയാൽ നമ്മൾ ഒരു സോ കട്ട് എടുത്ത് അത് ചെയ്യും നിങ്ങൾ പറയും നമുക്ക് കട്ടറിന്റെ തിക്നെസ്സ് കഴിയുന്നത്ര നേർത്തതായി 0 1 മില്ലിമീറ്ററോ അതിൽ കുറവോ ക്രമത്തിൽ എടുക്കുമെന്ന് തുടർന്ന് തിൻ സ്ലിറ്റ് ഉണ്ടാക്കുക സ്റ്റേബിൾ ഫ്രാക്ചർ കാരണം നിങ്ങൾ പ്ലെയിൻ സ്ട്രെസ് ടെസ്റ്റിംഗിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായി ഒരു നാച്ചുറൽ ക്രാക്ക് ലഭിക്കും പക്ഷെ ആളുകൾ പരീക്ഷണാത്മകമായി നേടിയത് മെറ്റീരിയൽ നിർദ്ദേശിക്കുന്ന ഒരു ചെറിയ ദൂരം നിങ്ങൾക്കാവശ്യമുണ്ട് എന്നതാണ് അതിനാൽ ഒരു സ്റ്റേബിൾ ക്രാക്ക് ഗ്രോത്ത് നിങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇനീഷ്യൽ ക്രാക്ക് മെച്ചപ്പെടുത്തുമെന്ന് അന്വേഷിക്കണം അതിനാൽ നിങ്ങൾ നിരീക്ഷിക്കേണ്ടത് എച്ച് 11 സ്റ്റീലിന്റെ കാര്യത്തിൽ 20 മൈക്രോൺ റൂട്ട് ദൂരം ക്രാക്ക് ബ്ലെൻന്റ ആണെന്ന് പറയാൻ പര്യാപ്തമാണ് നമ്മൾ പറഞ്ഞു ബ്ലെൻഡിങ് സംഭവിക്കരുതെന്ന് നിങ്ങൾക്ക് ഒരു ഷാർപ്പർ ക്രാക്ക് ആവശ്യമാണ് നിങ്ങൾക്ക് ഒരു നിർവചനം ഉണ്ട്എന്താണ് ബ്ലെൻഡിങ് ആയി കണക്കാക്കപ്പെടുന്നത് നിങ്ങൾക്ക് 20 മൈക്രോൺ റൂട്ട് ദൂരം ഉണ്ടെങ്കിൽ ക്രാക്ക് ബ്ലെൻഡിങ് ഉള്ളതാണ് അത് അഭികാമ്യമല്ല അതിനാൽ നിങ്ങൾ ഒരു ഫൈനർ സോ കട്ടിനായി പോകണം സോ കട്ട് മതിയെങ്കിലും അത് എത്ര മികച്ചതാണ് എന്നത് മെറ്റീരിയലിനെ ആശ്രയിച്ചിരിക്കുന്നു ട്രയൽ ആൻഡ് ഇറർറിലൂടെയും നിങ്ങൾക്ക് ഇത് നേടാനാകും ഇത് പെർമിസ്സിബിൾ ബ്ലൻറ്നെസ്സ് പരീക്ഷണാത്മകമായി സ്ഥാപിക്കേണ്ടതുണ്ടെന്നും പ്രസ്താവിക്കുന്നു നിങ്ങൾക്ക് ചില സ്ക്രീനിംഗ് മാനദണ്ഡങ്ങളുണ്ട് ക്രാക്കിന്റെ നീളം വീതിയുടെ മൂന്നിലൊന്നിൽ കുറവാണ് കൂടാതെ 2a എന്നത് w ബൈ 3 എന്നതിനേക്കാൾ കുറവായിരിക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു നിങ്ങൾ പ്ലെയിൻ സ്ട്രെസ് ഫ്രാക്ചർ ഫ്നെസ്സ് ടെസ്റ്റ്റ്റിംഗിലേക്ക് വരുന്ന നിമിഷം പാനലിന്റെ വീതിയും പ്രധാനമാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ക്രീനിംഗ് മാനദണ്ഡമുണ്ട് അത് 2a എന്നത് w ബൈ 3 നെക്കാൾ കുറവായിരിക്കണം എന്ന് പറയുന്നു കൂടാതെ നിങ്ങൾ നേടുന്ന ഫ്രാക്ചർ സ്ട്രെങ്ത് എന്തായാലും യിൽഡ് സ്ട്രെങ്തിന്റെ 2 മുതൽ 3 ഇരട്ടി വരെ കുറവായിരിക്കണം സിഗ്മ ys ഇത് ഒരു സ്ക്രീനിംഗ് മാനദണ്ഡം മാത്രമാണ് ആന്റി ബക്ക്ലിംഗ് ഗൈഡ് ഇത് വളരെ രസകരമായ ഒരു നിരീക്ഷണമാണ് എനിക്ക് ഒരു തിൻ പാനലും ഒരു ക്രാക്കും ഉണ്ട് സ്ലൈഡിന്റെ ടൈറ്റിൽ പറയുന്നത് ഇത് ആന്റി ബക്ക്ലിംഗ് ഗൈഡ് ആണ് ഞാൻ ആനിമേഷൻ ആവർത്തിക്കും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ലോഡുകൾ പ്രയോഗിക്കുമ്പോൾ ക്രാക്കിന് തൊട്ടടുത്തുള്ള പ്രദേശം ബക്കിൾ ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ ഒരു ടെൻഷൻ മാത്രമാണ് പ്രയോഗിക്കുന്നത് ക്രാക്കിന് സമീപത്തായി എന്തുകൊണ്ടാണ് ബക്ക്ലിംഗ് നടക്കുന്നത് നിങ്ങൾക്കറിയാമോ ഒരു ഹോൾ ഉള്ള പ്ലേറ്റിന്റെ റിസൾട്ട് നിങ്ങൾ എടുക്കണം അതിന്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം എനിക്ക് ഒരു ഹോൾ ഉള്ള പ്ലേറ്റ് ഉണ്ട് അതിന്റെ ഹോൾ റേഡിയസ് എൻലാർജ് ചെയ്യുന്നു ഇത് ഏകീകൃത ലോഡിംഗിന് വിധേയമാണ് ഇതിനെക്കുറിച്ചുള്ള സ്ട്രെസ് വേരിയേഷൻ എന്താണ് എന്ന് ഞാൻ പറയട്ടെ സ്ട്രെസ്സ്സിന്റെ വേരിയേഷൻ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് അറ്റങ്ങളിലും 3 മടങ്ങ് സിഗ്മ വിദൂര ഫീൽഡിന്റെ മൂല്യം കൈവരിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തും കാരണം ലോഡ്ഹൊറിസോണ്ടൽ ആയിട്ടാണ് പ്രയോഗിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം സ്ട്രെസ് കോൺസൺട്രേഷൻ ഫാക്ടർ 3 ആണെന്ന് എന്താണ് പ്രധാന റിസൾട്ട് x ആക്സിസ്സിൽ ഈ സ്ഥലത്ത് അത് മൈനസ് ഫാർ ഫീൽഡ് സ്ട്രെസ്സിന്റെ മൂല്യത്തിൽ എത്തുന്നു അതിനാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കംപ്രഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ടെൻഷനുമുണ്ട് അത് നിങ്ങൾക്ക് സിഗ്മ തീറ്റ തീറ്റ ഈക്വൽ ടു സിഗ്മ xx ഗുണം 1 മൈനസ് 2 കോസ് 2 തീറ്റ എന്ന എക്സ്സ്പ്രെഷൻ വഴി എളുപ്പം ലഭിക്കും അതിനാൽ നിങ്ങൾ തീറ്റയെ 0 ന് തുല്യമായി ഇടുകയാണെങ്കിൽ ഈ സിഗ്മ തീറ്റ തീറ്റയെ കംപ്രസ്സീവ് ആയി ലഭിക്കും നോക്കൂ ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ജിയോമെട്രിക് ഡിസ്കൺണ്ടിന്യുവിറ്റി ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായും സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാക്കുന്നു മറ്റ് ഒരു നിരീക്ഷണം ജിയോമെട്രിക് ഡിസ്കൺണ്ടിന്യുവിറ്റിക്കടുത്തുള്ള ഒരു യൂണിഅക്സിയൽ സ്ട്രെസ് ഫീൽഡ് ബയാക്സിയൽ സ്ട്രെസ് ഫീൽഡിലേക്ക് മാറുന്നു നിങ്ങൾ സ്ട്രെസ് ഫീൽഡിനെക്കുറിച്ച് ശരിക്കും അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്കും ആശ്ചര്യമുണ്ടാകും ഞാൻ ടെൻഷൻ പ്രയോഗിക്കുമ്പോൾ ഹോളിന്റെ ബൌണ്ടറിയിൽ കംപ്രസ്സീവ് സ്ട്രെസ്സുകളും വികസിപ്പിക്കാൻ കഴിയുന്നുണ്ട് ക്രാക്കിന്റെ കാര്യത്തിൽ അതിന് സമാനമായ ചിലത് സംഭവിക്കുന്നു അതിനാൽ നിങ്ങൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ കംപ്രസ്സീവ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നതിനാലും നിങ്ങൾക്ക് തിൻ പാനൽ ഉള്ളതിനാലും പാനലിന്റെ ബക്ക്ലിംഗ് സാധ്യമാണ് നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കാം ഈ ബക്ക്ലിംഗ് അഭികാമ്യമാണോ അല്ലയോ നിങ്ങൾ ടെസ്റ്റിംഗ് നടത്തുമ്പോൾ എനിക്ക് ബക്ക്ലിംഗ് നടക്കണോ അതോ ബക്ക്ലിംഗ് തടയുന്നതിനോ ബക്ക്ലിംഗ് അനുവദിക്കുന്നതിനോ ഉള്ള മൂല്യങ്ങൾ കണ്ടെത്തണോ അതിനാൽ ഇത് ഒരു ചർച്ചാവിഷയമാണ് ആളുകൾ അത് എങ്ങനെ ചെയ്തുവെന്ന് നമ്മൾ കാണും അതിനാൽ നിങ്ങൾ അത് ഓർമ്മിക്കേണ്ടതാണ് തിൻ പാനലുകളിൽ ലോഡ് വർദ്ധിക്കുമ്പോൾ ക്രാക്ക് ബക്ക്ലിംഗ് സംഭവിക്കാം ആക്ച്വൽ സ്ട്രക്ചറിൽ ബക്ക്ലിംഗ് പൂർണ്ണമായും നിയന്ത്രിക്കപ്പെടില്ല അതിനാൽ ആളുകൾ പറയുന്നത് ബക്കിംഗ് ഗൈഡുകളില്ലാതെ ടെസ്റ്റ് റിപ്പോർട്ട് ചിലപ്പോൾ അഭികാമ്യമാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് ഇത് ഉള്ളിടത്ത് ഈ ഡയഗ്രം വരയ്ക്കുന്നു പ്രത്യേക ഗൈഡുകൾ നൽകിയിട്ടുണ്ട് ഇത് ലോഡുകൾ പ്രയോഗിക്കുമ്പോൾ പാനലിനെ ബക്ക്ലിംഗിൽ നിന്ന് തടയും ഇവ ബക്ക്ലിംഗ് തടയുന്നതിനുള്ള ഗൈഡുകളാണ് അവ അറിയപ്പെടുന്നത് ആന്റി ബക്ക്ലിംഗ് ഗൈഡുകൾ എന്നാണ് അതിനാൽ ആന്റി ബക്ക്ലിംഗ് ഗൈഡുകൾ ഉപയോഗിച്ച് പരിശോധന നടത്തുക എന്ന ഒരു റെക്കമെൻറ്റേഷൻ ഉണ്ട് മറ്റ് റെക്കമെൻറ്റേഷനുകൾ എന്തെന്നാൽ ഒരു ആക്ച്വൽ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് തിൻ പാനലുകൾ ഉള്ളപ്പോൾഅവിടെ എല്ലായ്പ്പോഴും ബക്ക് ചെയ്യുന്നത് തടയാൻ നിങ്ങൾക്ക് ഒരു വ്യവസ്ഥ ഉണ്ടായിരിക്കില്ല അതിനാൽ അത്തരത്തിലുള്ളത് ടെസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ വിവേകപൂർവ്വം ആയിരിക്കും അതിനാൽ നിങ്ങളുടെ ടെസ്റ്റ് റിപ്പോർട്ടിൽ ബക്കിളിംഗിന്റെ എഫക്ട് ഉൾക്കൊള്ളുന്നു അതിനാൽ ഇത് ഒരു ചർച്ചാവിഷയമാണ് മറ്റൊരു റെക്കമെൻറ്റേഷൻ ലോഡു ചെയ്യുന്നതിലൂടെ നിങ്ങൾ എല്ലായ്പ്പോഴും ഒരു ക്രാക്ക് വളർത്താൻ കഴിയും നമ്മൾ എന്താണ് കണ്ടത് നിങ്ങൾ ലോഡ് വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റേബിൾ ഫ്രാക്ചർ ഉണ്ടാകും തുടർന്ന് അൺസ്റ്റേബിൾ ഫ്രാക്ചറും ഉണ്ടാകും വാസ്തവത്തിൽ ആളുകൾ ഈ പ്ലെയിൻ സ്ട്രെസ് ടെസ്റ്റിംഗിന്റെ ഒരു വീഡിയോ റെക്കോർഡ് നിർമ്മിക്കുന്നു അവർ തീർച്ചയായും കാണണം സ്റ്റേബിൾ ഫ്രാക്ചർനെ തുടർന്ന് അൺസ്റ്റേബിൾ ഫ്രാക്ചറും ഉണ്ടാകും എന്നത് ഇങ്ങനെയാണ് ആളുകൾ ഫലങ്ങൾ ഫിൽട്ടർ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ പ്രധാനമായും ചെയ്യുന്നത് നിങ്ങൾ ഒരു യൂണിഅക്സിയൽ ലോഡിംഗ് പ്രയോഗിക്കുന്നു നിങ്ങൾ കണ്ടെത്താൻ പോകുന്നത് എന്തെന്നാൽ മുഴുവൻ പാനലിനും ഒരു ക്യാറ്റസ്ട്രോപ്പിക് ഫൈയില്യർ ഉണ്ടെന്ന് അതിനാൽ ഇവിടെ റെക്കമെൻന്റ ചെയ്യുന്നത് സോയിങ് നടത്തികൊണ്ട് ക്രാക്കിന്റെ നീളം കൂട്ടരുത് തുടർന്ന് ക്രിട്ടിക്കൽ ക്രാക്ക് ലെങ്ത് കണ്ടെത്തുക അത് അഭികാമ്യമല്ല പാനൽ വീതിയുടെ സ്വാധീനം ലോഡു ചെയ്യുന്നതിലൂടെ മാത്രം നിങ്ങൾ എല്ലായ്പ്പോഴും ഒരു ക്രാക്ക് വളർത്തണം നിങ്ങൾ അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽറിസൾട്ട് എല്ലാം ശരിയാകും മറുവശത്ത് നിങ്ങൾ സോ ചെയ്തത് അതിനെ വളർത്തി ക്രിട്ടിക്കൽ ക്രാക്ക് ലെങ്തും ക്രിട്ടിക്കൽ സ്ട്രെസും കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ക്രിട്ടിക്കൽ ക്രാക്ക് ലെങ്തിന്റെ ഒരു ഓവർ എസ്റ്റിമേറ്റ് ആയിരിക്കും തരുന്നത് നമ്മൾ കാണാൻ പോകുന്നതിന് ഒരു ഇനീഷ്യൽ ക്രാക്ക് ലെങ്ത് ഉണ്ടാകും ഒരു സ്റ്റേബിൾ ക്രാക്ക് ഗ്രോത്ത് സവിശേഷതയുണ്ട് തുടർന്ന് R കർവിന്റെ സഹായത്തോടെ വളരെക്കാലം മുമ്പ് പ്ലെയിൻ സ്ട്രെസ് സിറ്റുവേഷനുകളെക്കുറിച്ച് ചർച്ചചെയ്യുമ്പോൾ പോലും നമ്മൾ അൺസ്റ്റബിൾ ഫൈയില്യർ കണ്ടിട്ടുണ്ട് നമുക്ക് അത് വീണ്ടും പരിശോധിക്കാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പ്രത്യേക പാനൽ വിഡ്ത് അല്ലെങ്കിൽ അതിനപ്പുറം സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ ആയി നിങ്ങൾ കണ്ടെത്തിയ പ്രോപ്പർട്ടി എന്തായാലും അത് സ്റ്റെബിലൈസ് ചെയുന്നു ഇതിന്റെ ഒരു രേഖാചിത്രം നിങ്ങൾ തയ്യാറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഒരു ഗ്രാഫ് ഉണ്ട് X ആക്സിസ് പാനലിന്റെ വിഡ്ത് സൂചിപ്പിച്ചിരിക്കുന്നു Y ആക്സിസ്സിൽ നിങ്ങൾക്ക് ഫ്രാക്ചർ ടഫ്നെസ്സ് ഉണ്ട് നിങ്ങൾ കണ്ടെത്തേണ്ടത് പാനലിന്റെ വിഡ്ത് ഒരു പ്രത്യേക വിഡ്ത്തിന പ്പുറത്തേക്ക് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ KIC യുടെ മൂല്യം കോൺസ്റ്റൻറ് ആയി തുടരും അതിനാൽ ഇവിടെയുള്ള കാര്യം പ്ലെയിൻ സ്ട്രെസ്സിന്റെ കാര്യത്തിൽ പാനൽ വിഡ്ത്തിന് ഒരു പങ്കുണ്ട് കണക്കാക്കിയ മൂല്യം ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടി പോലെ പെരുമാറേണ്ടതുണ്ട് എന്തെന്നാൽ ഒരു പ്രത്യേക വീതി ആവശ്യമാണ് അതിനാൽ ശ്രദ്ധിക്കേണ്ട ആശയം ഒരു നിശ്ചിത തിക്നെസ്സ്സിന് മിനിമം പാനൽ വിഡ്ത് ഉണ്ടായിരിക്കണം നോക്കൂ പ്ലെയിൻ സ്ട്രെയിൻ ഫ്രാക്ചർ ടഫ്നെസ്സ്സും പ്ലെയിൻ സ്ട്രെസ് ഫ്രാക്ചർ ടഫ്നെസ്സ്സും ടെസ്റ്റിംഗിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഈ എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾ എല്ലാ പാരാമീറ്ററുകളും കൊണ്ടുവരുന്നു ഇത്തരത്തിലുള്ള എക്സ്ഹോസ്റ്റീവ് ടെസ്റ്റിംഗ് മറ്റ് എഞ്ചിനീയറിംഗ് രീതികളിൽ നിങ്ങൾ കാണുന്നില്ല അതിനാൽ നിങ്ങൾ ഈ റിസൾട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് വെയിറ്റേജ് നൽകണം സ്റ്റേബിൾ ഫ്രാക്ചറിനെ പിന്തുടരുന്ന ക്യാറ്റസ്ട്രോപ്പിക് ഫ്രാക്ചർ നമുക്ക് തിരിച്ചുപോയി തിൻ പാനലുകളിൽ സ്റ്റേബിൾ ഫ്രാക്ചർ എങ്ങനെ സംഭവിക്കുന്നുവെന്ന് കാണുകയും മനസിലാക്കുകയും വീണ്ടും വിശദീകരിക്കുകയുംചെയ്യാം നിങ്ങൾ ഓർക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ കോഴ്സിന്റെ ആദ്യഭാഗത്ത് ഇത് ചർച്ച ചെയ്യപ്പെട്ടു അതിനാൽ ഇടത് വശത്ത് നിങ്ങൾക്ക് ഇനീഷ്യൽ ക്രാക്ക് ലെങ്ത് ഉണ്ട് വലതുവശത്ത് നിങ്ങൾക്ക് ക്രാക്കിന്റെ ഗ്രോത്ത് ഉണ്ട് അതിൽ ഡെൽറ്റ a നൽകിയിരിക്കുന്നു Y അക്ഷത്തിൽ നിങ്ങൾ എനർജി G R എന്നിവ പ്ലോട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് ഈ ആകൃതിയിൽ ഒരു R കർവുണ്ട് കാരണം R കർവ് ഇതുപോലുള്ള കുത്തനെയുള്ളതാണ് നിങ്ങൾക്ക് സ്ട്രെസ് സിഗ്മ 1 ആയി ഉണ്ടാകുകയും അനുബന്ധ എനർജി റിലീസ് റേറ്റ് G1 ആണെങ്കിൽ അത് റെസിസ്റ്റൻസിനെക്കാൾ കുറവാണ് അതിനാൽ ക്രാക്ക് പ്രചരിപ്പിക്കില്ല ഞാൻ സിഗ്മ 2 ൽ എത്തുന്ന നിമിഷം ഈ ഘട്ടത്തിൽ G2 ഈക്വൽ ടു R ആകും ലോഡ് ചെറുതായി വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റേബിൾ ഫ്രാക്ചർ ഉണ്ടാകും ലോഡ് നിർത്തിയാൽ ക്രാക്കക്കും നിർത്തും ഞാൻ ലോഡ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾക്ക് അൺസ്റ്റബിൾ ഫ്രാക്ചർ ഉണ്ടാകും നമ്മൾ ഇത് നേരത്തെ കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ മികച്ച ഗ്രാഹ്യത്തോടെ നിങ്ങൾക്ക് ഈ ആസ്പെക്റ്റ് വിലമതിക്കാൻ കഴിയും അതിനാൽ അപ്പ്ലൈഡ് സ്ട്രെസ്സിന്റെ വാല്യൂ ക്രിട്ടിക്കൽ വാല്യൂ ആയ സിഗ്മ C യിലെത്തുകയും കറസ്പോണ്ടിങ് എനർജി റിലീസ് റേറ്റ് G c ആകുകയും ചെയ്യുമ്പോൾ ലൈൻ R കർവിന് ടാൻജെന്റ് ആകുന്നു അതിനാൽ ഇവിടെ നിർദ്ദേശിച്ച പോയിന്റ് സിഗ്മ 2 മുതൽ സിഗ്മ C വരെയാണ് നിങ്ങൾക്ക് ഡെൽറ്റ a1 ന് തുല്യമായ ഇൻക്രിമെന്റൽ ലെങ്തിന്റെ സ്റ്റേബിൾ ഫ്രാക്ചർ ഉണ്ടാകും അതിനാൽ ഇവിടെയാണ് ചോദ്യം വരുന്നത് ഏതെങ്കിലും പാനലിനായി ഫ്രാക്ചർ സ്ട്രെങ്ത് എന്താണ് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട് എന്താണ് ക്രിട്ടിക്കൽ ക്രാക്ക് ലെങ്ത് ചോദ്യം ഇതാണ് നിങ്ങൾ a1 ഒരു ക്രിട്ടിക്കൽ ക്രാക്ക് ലെങ്തായി അല്ലെങ്കിൽ a1 പ്ലസ് ഡെൽറ്റ a1 ഒരു ക്രിട്ടിക്കൽ ക്രാക്ക് ലെങ്തായി റിപ്പോർട്ടു ചെയ്യുമോ നിങ്ങൾ സൂക്ഷ്മമായ പ്രശ്നങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ക്രാക്ക് ലെങ്തായി നിങ്ങൾ a1 പ്ലസ് ഡെൽറ്റ a1 എന്ന് പറയും അത് തെറ്റാണ് ക്രിട്ടിക്കൽ ക്രാക്ക് ലെങ്തായി നിങ്ങൾക്ക് 1 പ്ലസ് ഡെൽറ്റ 1 ഉണ്ടാകരുത് a1 എന്നത് നിങ്ങളുടെ കൈവശമുള്ള ക്രാക്ക് ആണ് ഫ്രാക്ചർ പ്രോസസ്സ് കാരണം ഇത് a1 മുതൽ ഡെൽറ്റ a1 വരെ നീട്ടിയിരിക്കുന്നു ഇത് ഫാറ്റിഗ് അല്ലെങ്കിൽ സ്ട്രെസ് കോറോഷൻ അല്ലെങ്കിൽ ഇവയിലേതെങ്കിലും പോലുള്ള ഒരു ഗ്രോത്ത് മെക്കാനിസം അല്ല നിങ്ങൾക്ക് സ്റ്റേബിൾ ഫ്രാക്ചർനെ തുടർന്ന് അൺസ്റ്റബിൾ ഫ്രാക്ചർ ഉണ്ടാകും ഫ്രാക്ചർ ലിറ്ററേച്ചറിൽ ആദ്യകാലങ്ങളിൽ നിരവധി ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ആളുകൾ പറയുന്നു നമ്മൾ ഇപ്പോൾ നടത്തിയ നിരീക്ഷണം എന്തുതന്നെയായാലും രണ്ട് നിബന്ധനകളായി സമ്മെറൈസ് ചെയ്യാം അത് ക്യാറ്റസ്ട്രോപ്പിക് ഫൈയില്യർന് ആവശ്യമായതും പര്യാപ്തവുമാണ് G എന്നത് R ന് തുല്യമായിരിക്കണം അതാണ് ആവശ്യമായ അവസ്ഥ മതിയായ വ്യവസ്ഥ dow G ഡിവൈഡഡ് ബൈ dow a ഈക്വൽ ടു dow R ബൈ dow a എന്നാണ് അതിനാൽ അത് ഒരു ടാൻജെന്റായി മാറുമ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആണ് ലിറ്ററേച്ചറിൽ നിങ്ങൾ നോക്കുന്ന പ്രശ്നം സിഗ്മ C എന്നത് ക്രാക്ക് ലെങ്ത് a1 പ്ലസ് ഡെൽറ്റ a1 ലെ ഫ്രാക്ചർ സ്ട്രെങ്ത് അല്ല മറിച്ച് അത് a1 നാണ് അതിനാൽ ആളുകൾ മറ്റൊരു ആൾട്ടർനേറ്റ് ടെർമിനോളജി പുറത്തിറക്കി നിങ്ങൾ KIC യുടെ മാർഗ്ഗത്തിൽ കൂടെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയും a ബൈ w ന്റെ ഫങ്ക്ഷൻ ആയ ഫൈനൈറ്റ് ജിയോമേറ്ററി ബീറ്റയുടെ ഫാക്ടർ ആണ് സിഗ്മ C റൂട്ട് ഓഫ് പൈ a c ആണ് നമുക്ക് പതിവ് അതിനർത്ഥംനിങ്ങൾ ക്രിട്ടിക്കൽ ക്രാക്ക് ലെങ്ത് a c എന്ന് നൽകണം നിങ്ങൾക്ക് ഇത് ശരിയായി അളക്കാൻ പോലും കഴിഞ്ഞേക്കില്ല അതിനാൽ ആളുകൾ അപ്പാരൻന്റ് ടഫ്നെസോടെയാണ് പുറത്തുവന്നത് ഇത് കെ 1 ഇ ആണ് അത് സിഗ്മ സ്ക്വയർ റൂട്ട് ഓഫ് പൈ എ1 ആയി നൽകിയിരിക്കുന്നു നമ്മൾ ഇത് ഗ്രാഫിക്കായി കാണും നിങ്ങൾ ഗ്രാഫ് പരിശോധിച്ചു കഴിഞ്ഞാൽനിങ്ങൾക്ക് ഈ ആൾട്ടർനേറ്റ് ഡെഫനിഷൻ വിലമതിക്കാനാകും അതിനാൽതിൻ പാനലുകളിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സ്റ്റേബിൾ ഫ്രാക്ചർ ഉണ്ടാകും തുടർന്ന് അൺസ്റ്റബിൾ ഫ്രാക്ചർ ഉണ്ടാകും ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്ലെയിൻ സ്ട്രെസ്സിൽ ഫ്രാക്ചർഡ് സ്പെസിമെനിൽ നിന്ന് ക്രിട്ടിക്കൽ ക്രാക്ക് ലെങ്ത് അളക്കുന്നത് ബുദ്ധിമുട്ടാണ് ഒറിജിനൽ ക്രാക്ക് ലെങ്തും സ്റ്റേബിൾ ഫ്രാക്ചർ ഫേസ്സും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തതിനാലാണിത് അളക്കുന്നതിൽ നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതിനാൽ KIC ഈക്വൽ ടു ബീറ്റ സിഗ്മ C ഗുണം സ്ക്വയർ റൂട്ട് ഓഫ് പൈ a c കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ് അതിനാൽ ആളുകൾ KIC ഈക്വൽ ടു ബീറ്റ സിഗ്മ C സ്ക്വയർ റൂട്ട് ഓഫ് പൈ a 1 ഉള്ളിടത്ത് ആൾട്ടർനേറ്റ് ഡെഫനിഷൻ റെക്കമെന്റ് ചെയ്യുന്നു അപ്പാറെന്റ് ടഫ്നെസ്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് അതിനാൽ ലിറ്ററേച്ചറിൽ നിങ്ങൾ കണ്ടെത്തും ക്രാക്ക് ഇനീഷ്യറ്റ് ചെയുമ്പോൾ ഉണ്ടാകുന്ന ടഫ്നെസ്സ് വാല്യൂ എത്രയാണ് ഒരു ക്യാറ്റസ്ട്രോപ്പിക് ഫൈയില്യർ നടക്കുമ്പോൾ ഉള്ള ടഫ്നെസ്സ് വാല്യൂ എത്രയാണ് എന്താണ് അപ്പാറെന്റ് ടഫ്നെസ്സ് അതിനാൽ നിങ്ങൾക്ക് മൂന്ന് നിർവചനങ്ങളും ഉണ്ട് ക്രാക്കിന് ഒരു ക്യാറ്റസ്ട്രോപ്പിക് വാല്യൂ ഉള്ളപ്പോൾ ടഫ്നെസ്സിന്റെ മൂല്യം എന്താണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇതാണ് അപ്പാറെന്റ് ടഫ്നെസ്സ് നിങ്ങൾക്ക് മറ്റൊന്ന് ഉണ്ടായിരിക്കാം അത് നിങ്ങൾക്ക് സിഗ്മ 1 അല്ലെങ്കിൽ സിഗ്മ 2 സ്ട്രെസ് ആയി അനുഭവപ്പെടുന്നു ഡയഗ്രം അനുസരിച്ച് നിങ്ങൾക്ക് ഇത് പൈ a1 ആയി കാണാം റെസിഡ്യൂവൽ സ്ട്രെങ്ത് ഡയഗ്രാം അതായിരിക്കും തുടക്കത്തിലെ ഫ്രാക്ചർ ടഫ്നെസ്സ് നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട മറ്റൊരു പ്രധാന ആശയം ഒരു ക്രാക്കിന്റെ സാന്നിധ്യത്തിൽ റെസിഡ്യൂവൽ സ്ട്രെങ്ത് എന്താണ് കാരണം തിൻ പാനലുകൾ എയ്റോസ്പേസ് ഘടനയിൽ ഉപയോഗിക്കുന്നു എന്റെ ഡിസൈൻ സുരക്ഷിതമാണോ എന്നതാണ് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ ആശയം എനിക്ക് ഒരു ക്രാക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എനിക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന റെസിഡ്യൂവൽ സ്ട്രെങ്ത് എന്താണ് നിങ്ങൾക്ക് ഇവിടെയുള്ളത് ക്രാക്ക് ലെങ്തും സ്ട്രെസും തമ്മിലുള്ള ഒരു ഗ്രാഫ് ആണ് അതിനാൽ ക്രാക്കിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് എനിക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന സ്ട്രെസ്സ് ചെറുതായിരിക്കും ക്രാക്കിന്റെ ലെങ്ത് വളരെ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ സ്ട്രെസ്സ് പ്രയോഗിക്കാം വാസ്തവത്തിൽ അത് കാണിച്ചിരിക്കുന്നതുപോലെ അത് ഇൻഫിനിറ്റിയായിരിക്കരുത് ഇത് നിങ്ങളുടെ ഡിസൈൻ സ്ട്രെങ്തിനെയോ അല്ലെങ്കിൽ കുറഞ്ഞത് മെറ്റീരിയലിന്റെ യിൽഡ് സ്ട്രെങ്തിനെയോ ഉപയോഗിച്ച് പരിമിതപ്പെടുത്തും ഇത് ഒരു തിൻ പാനൽ ആയതിനാൽ നിങ്ങൾക്ക് ട്രെസ്ക് യിൽഡ് ക്രൈറ്റീരിയ വാലിഡ് ആയിരിക്കും അതുവഴി നമ്മൾ പരിഷ്ക്കരിക്കുകയും കാണുകയും ചെയ്യും ടഫ്നെസ്സിന്റെ വാല്യൂവിൽ നിന്ന് ഈ റെസിഡ്യൂവൽ സ്ട്രെങ്ത് ഡയഗ്രാം എങ്ങനെ ദൃശ്യമാകുമെന്ന ആശയം നൽകുന്നു ടഫ്നെസ്സിന്റെ കുറഞ്ഞ വാല്യൂവിന് നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്ന സ്ട്രെസ് കുറവായിരിക്കും ടഫ്നെസ്സിന്റെ ഉയർന്ന വാല്യൂവിന് നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്ന സ്ട്രെസ് കൂടുതലായിരിക്കാം ഇൻഫൈനൈറ്റ് പാനലുകളിൽ നെറ്റ് സെക്ഷൻ യിൽഡിലൂടെയും ഫൈയില്യർ സംഭവിക്കാം ക്രാക്കിന്റെ ലെങ്ത് ആവശ്യത്തിന് ദൈർഘ്യമേറിയതാണെങ്കിൽ നിങ്ങൾക്ക് മതിയായ നെറ്റ് സെക്ഷൻ ഉണ്ടാകും ഫ്രാക്ചർനേക്കാൾ കൂടുതൽ ഉള്ള ഒരു പ്രത്യേക ലോഡുകളുടെ സംയോജനത്തിന്അത് ഫ്രാക്ചർ കോളാപ്പ്സ് ആണ് കൂടാതെ അത് പാനൽ എങ്ങനെ ഫൈയിൽ ആകും എന്ന് നിർണ്ണയിക്കും ചെയ്യും ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പാറെന്റ് ടഫ്നെസ്സ് എങ്ങനെ അപ്പ്റിഷിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം നോക്കൂ ഒരു റെസിഡ്യൂവൽ സ്ട്രെങ്ത് ഡയഗ്രാം പൊതുവെ എങ്ങനെ ദൃശ്യമാകുമെന്ന് നമ്മൾ കണ്ടു അതിനാൽ എനിക്ക് ക്രാക്ക് ലെങ്തിന്റെ ഇടയിൽ ഒരു ഗ്രാഫ് ഉണ്ട് എനിക്ക് ഇവിടെ സ്ട്രെസും ഉണ്ട് നിങ്ങൾക്ക് ഇതുപോലൊരു ഗ്രാഫ് ഉണ്ടായിരിക്കാം 2a ലെങ്ത് ഉള്ള ഒരു ക്രാക്കിന് ഞാൻ പറയട്ടെ അത് 2a1 ആണ് സ്ട്രെസ്സിന്റെ ഒരു പ്രത്യേക വാല്യൂവിൽ നിങ്ങൾക്ക് ക്രാക്ക് ഓർഗനൈസേഷൻ ഉണ്ട് എന്താണ് സംഭവിക്കുക നിങ്ങൾക്ക് ഇതുപോലുള്ള മറ്റൊരു ഗ്രാഫ് ഉണ്ടായിരിക്കാം എന്നതാണ് ക്രാക്ക് ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്യും സ്ട്രെസ്സിന്റെ ഈ വാല്യൂവിൽ സിഗ്മ C നിങ്ങൾക്ക് ഒരു ക്യാറ്റസ്ട്രോപ്പിക് ഫൈയില്യർ ഉണ്ടാകും വിള്ളലിന്റെ നീളം വർദ്ധിച്ച് ഈ ലൈനിൽ സ്പർശിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വലിയ പരാജയം ഉണ്ടാകും ഇവിടെ ക്രാക്ക് ഓർഗനൈസേഷൻ നടക്കുന്നു ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് വ്യക്തമായ അപ്പാറെന്റ് ടഫ്നെസ്സ് വികസിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ അപ്പാറെന്റ് ടഫ്നെസ്സിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ സ്ട്രെസ്സ് ഉണ്ടാകും ഈ ലൈൻ ഇൻക്ലയിൻഡ് ആണ് അതിനാൽ ഞാൻ ഇത് ഹോറിസോണ്ടൽ ആയി എഴുതുന്നു എനിക്ക് ഇത് ഉണ്ടാകും ഞാൻ ഈ പോയിന്റ് അടയാളപ്പെടുത്തും 2a1 എന്ന ക്രാക്ക് ലെങ്തിന് ഈ എക്സ്പിരിമെന്റിൽ നിന്ന് എനിക്ക് ഒരു പോയിന്റ് ഉണ്ട് അത് അപ്പാറെന്റ് ടഫ്നെസ്സ് നൽകും അതുപോലെ എനിക്ക് ഇത് എല്ലാ പോയിന്റുകൾക്കും ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് എനിക്ക് ഒരു നീളമുള്ള ക്രാക്ക് ഉണ്ടെന്ന് കരുതുക ഇത് ആരംഭിക്കുന്നതിന് എനിക്ക് ഉള്ള ക്രാക്ക് ലെങ്ത് 2a1 ആണ് എനിക്ക് നീളമുള്ള ക്രാക്ക് ഉണ്ടെന്ന് കരുതുക സ്ട്രെസ്സിന്റെ ചെറിയ മൂല്യത്തിൽ ക്രാക്ക് ഓർഗനൈസേഷൻ സംഭവിക്കും ഇത് കൂടുതൽ ദൂരം പോകുമെന്നു നിങ്ങൾ കണ്ടെത്തുക ഫ്രാക്ചർ ടഫ്നെസ്സ് സ്ട്രെസ് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടെത്തുക നിങ്ങൾക്ക് അപ്പാറെന്റ് ടഫ്നെസ്സ്നെക്കുറിച്ച് മറ്റൊരു കാര്യം കണ്ടെത്താൻ കഴിയും ഞാൻ എല്ലാവരുമായും ചേരുന്നുവെന്ന് കരുതുക എന്റെ പക്കലുണ്ട് Ke ക്ക് അനുയോജ്യമായ ഗ്രാഫ് അതാണ് അപ്പാറെന്റ് ടഫ്നെസ്സ് അതിനാൽ നിങ്ങൾക്ക് ഇവിടെയുള്ളത് നിങ്ങൾക്ക് ക്രാക്ക് ലെങ്ത് 2a1 ഉണ്ടാകുമ്പോൾക്രാക്ക് ഒരു പ്രത്യേക സ്ട്രെസ് ലെവലിൽ ആരംഭിക്കുന്നു ഈ സ്ട്രെസ് ലെവലിൽ ക്യാറ്റസ്ട്രോപ്പിക് ഫൈയില്യർ സംഭവിക്കുന്നു എന്നാൽ അത്തരമൊരു രീതിയിൽ നിങ്ങൾ അപ്പാറെന്റ് ടഫ്നെസ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഫൈയില്യർ സ്ട്രെസ് സിഗ്മ c ആകും എന്നാൽ ഇനീഷ്യൽ ക്രാക്ക് ലെങ്ത് a1 ആണ് നമ്മൾ പിന്നീട് ചെയ്യാൻ പോകുന്ന ചർച്ച എന്തുതന്നെയായാലും അപ്പാറെന്റ് ടഫ്നെസ്സിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഇത് നിർമ്മിക്കാൻ കഴിയും അല്ലെങ്കിൽ ഇനീഷ്യൽ ടഫ്നെസ്സ് അപ്പാറെന്റ് ടഫ്നെസ്സ് ക്യാറ്റസ്ട്രോപ്പിക് ഫൈയില്യർ എന്നിവ നൽകുന്ന ഗ്രാഫുകളും നിങ്ങൾ കണ്ടെത്തും മൂന്ന് ഗ്രാഫുകളും ആളുകൾ അത് ചെയ്യുന്നു ഇപ്പോൾ ഈ രണ്ട് സോണുകളിലെ ഡാറ്റ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ കണ്ടെത്തണം എന്നതാണ് ആശയം ഫെഡെർസൻ നൽകിയ ഒരു ലഘൂകരണമുണ്ട് ഒരു സാധാരണ കാഠിന്യത്തിനായി ഞങ്ങൾ അത് ചെയ്യും സമാന ഗ്രാഫ് ഉപയോഗിച്ചു മറ്റ് ടഫ്നെസ്സ് വാല്യൂ ലഭിക്കുന്നതിനായി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും ഫെഡെർസൻ നൽകിയ സമീപനം ഇതാണ് ഓർക്കുക ഇത് ഒരു എഞ്ചിനീയറിംഗ് സമീപനമാണ് ഫീൽഡ് കാഴ്ചപ്പാടിൽ ഇത് വളരെ പ്രായോഗികമാണ് ഇതിനെക്കുറിച്ച് ചില വിശദാംശങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നു അതിനാൽ x ആക്സിസ്സിൽ നിങ്ങൾക്ക് ക്രാക്കിന്റെ ലെങ്ത് ഉണ്ട് കൂടാതെ പാനൽ വിഡ്ത് അടയാളപ്പെടുത്തിയിരിക്കുന്നതും നിങ്ങൾക്ക് കാണാം പാനലിന്റെ വിഡ്ത്തു നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം കാരണം ഇത് പ്രധാനമായും ഒരു ലെങ്ത് മെഷർ ആണ് Y അക്ഷത്തിൽ നിങ്ങൾക്ക് ഫൈയില്യർ സ്ട്രെസ്സുണ്ട് ഞാൻ ഇത് KIC ക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇനീഷ്യേഷൻ ഫ്രാക്ചർ ടഫ്നെസ്സ് അല്ലെങ്കിൽ അപ്പാറെന്റ് ഫ്രാക്ചർ ടഫ്നെസ്സ് എന്നിവയ്ക്കായും എഴുതാം അത് ഡയഗ്രാമിനെ ആശയക്കുഴപ്പത്തിലാക്കും അതിനാൽ ഞാൻ ഒരു ഡയഗ്രം എടുത്തു ഈ ഡയഗ്രം എന്താണ് കാണിക്കുന്നത് ക്രാക്ക് ലെങ്ത് ചെറുതായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്കലി സാധ്യമല്ലാത്ത സ്ട്രെസ്സ്സിന്റെ വലിയ വാല്യൂകൾ ഉണ്ടാകാം നിങ്ങൾ ഇത് സ്മാൾ തിക്നെസ്സ്സുള്ള ഒരു പാനലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം സ്ട്രെസ് സിഗ്മ ys ആയി ഉണ്ടാകും കാരണം പ്ലെയിൻ സ്ട്രെസ് സിറ്റുവേഷന് ട്രെസ്ക യിൽഡ് ക്രൈറ്റീരിയ ബാധകമാണ് അതിനാൽഎനിക്ക് ഇത് ഒരു സ്റ്റാർട്ടിങ് പോയിന്റായി എടുക്കാം അതിനാൽ നിങ്ങൾ ഒരു ടാൻജെന്റ് വരയ്ക്കണം നിങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നതിനാൽ ഒരു ഗ്രാഫ് നിർമ്മിക്കുക നിങ്ങൾക്ക് ഒരു ഇനിഷ്യൽ ഗ്രാഫ് ഉണ്ട് അത് നിർദ്ദേശിക്കുന്നത് സിഗ്മ c ഈക്വൽ ടു KIC ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പൈ a c എന്നാണ് ഇപ്പോൾ നിങ്ങൾ സിഗ്മ ys ൽ നിന്ന് ഒരു ടാൻജെന്റ് വരയ്ക്കുക ഇത് ഒരു പ്രത്യേക വാല്യൂവിൽ മീറ്റ് ചെയ്യുന്നു ഇത് നിങ്ങളുടെ അനലിറ്റിക്കൽ ജിയോമെറ്ററിയിൽ നിന്ന് എളുപ്പത്തിൽ നിർണ്ണയിക്കാൻ കഴിയും ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ പോകുന്നില്ല ഞാൻ നിങ്ങൾക്ക് ഫൈനൽ വാല്യൂ നൽകാൻ പോകുന്നു അതിനാൽ അതിനർത്ഥം റെസിഡ്യൂൽ സ്ട്രെങ്ത് ഡയഗ്രത്തിന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഭാഗവും ഒരു കർവും ഉണ്ടാകും നിങ്ങൾക്കറിയാം ഇത് പാനൽ വിഡ്ത്തിനെ മറികടക്കുന്നുവെന്ന് ഇതാണ് എന്റെ പാനൽ വിഡ്ത് എന്ന് കരുതുക എന്റെ റെസിഡ്യൂൽ സ്ട്രെങ്ത് ഡയഗ്രത്തിന്റെ യൂസ്ഫുൾ റേഞ്ച് എന്താണ് അതിനാൽ പാനൽ വിഡ്ത്തിൽ ഒരു ടാൻജെന്റ് വരയ്ക്കുക എന്നതാണ് റെക്കമെൻറ്റേഷൻ അതിനാൽ പാനൽ w വിന്റെ വിഡ്ത്തിനായി റെസിഡ്യൂവൽ സ്ട്രെങ്ത് ഡയഗ്രാമിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഭാഗവും കർവ്ഡ് ഭാഗവുംമറ്റൊരു സ്ട്രെയിറ്റ് ലൈൻ ഭാഗം എന്നിവ ഉണ്ടായിരിക്കും കോൺസ്റ്റന്റ് തിക്നെസ്സ് ഉള്ള പാനൽ ഫെഡെർസന്റെ എഞ്ചിനീയറിംഗ് സമീപനം നിങ്ങൾക്കറിയാമോ ഇത് ഫെഡെർസൻ നൽകിയ റെക്കമെൻറ്റേഷൻ ആയിരുന്നു ഇത് ഒരു എഞ്ചിനീയറിംഗ് സമീപനമാണ് കൂടാതെ വളരെ ജനപ്രിയമാണ് ആളുകൾ ഇത് ഇടത്തോട്ടും വലത്തോട്ടും ഉപയോഗിക്കുന്നു ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഞാൻ സിഗ്മ ys ൽ നിന്ന് ഒരു ടാൻജെന്റ് വരയ്ക്കുമ്പോൾ ക്രാക്ക് ലെങ്തിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്തൊക്കെയാണ് ഫൈയില്യർ സ്ട്രെസ് സിഗ്മ c1 ആയിരിക്കും അത് സിഗ്മ ys യുടെ മൂന്നിൽ രണ്ടായി നൽകിയിരിക്കുന്നു അതിനാൽസ്ക്രീനിംഗ് ക്രൈറ്റീരിയയിലെ കാരണം ഇതാണ് ഫൈയില്യർ സ്ട്രെസ് ഗ്രെയ്റ്റർ ദാൻ 2 ബൈ 3 സിഗ്മ ys അല്ലെങ്കിൽ ലെസ്സ് ദാൻ 2 ബൈ 3 സിഗ്മ ys ൽ ആയിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു ഇത് അതിനേക്കാൾ കുറവാണ് 2 ബൈ 3 സിഗ്മ ys ആയിരുന്നു അതിനാൽ ഇത് ഈ പ്രദേശത്ത് മാത്രം സംഭവിക്കുന്നു അതിനാൽ ഈ പ്രദേശത്ത് എന്ത് സംഭവിക്കുമെന്നത് തടയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ W ൽ നിന്നുള്ള ഒരു ടാൻജെന്റ് വരച്ചാൽ നിങ്ങൾക്ക് ഇത് 2a2 ഈക്വൽ ടു Wബൈ 3 എന്ന പോയിന്റായി ഉണ്ട് അതിനാൽ നിങ്ങളുടെ സ്ക്രീനിംഗ് ക്രൈറ്റീരിയ ഈ രീതിയിൽ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം സ്ട്രെയിറ്റ് ലൈൻ ഭാഗങ്ങൾക്ക് ഭൌതിക അടിസ്ഥാനമില്ല പക്ഷേ എഞ്ചിനീയറിംഗ് കാഴ്ചപ്പാടിൽ ഇത് ഉപയോഗപ്രദമാണ് എഞ്ചിനീയർമാരെ പരിശീലിപ്പിക്കുന്ന നിരവധി ആളുകളെ നിങ്ങൾ കണ്ടെത്തും അവർ ഫ്രാക്ചർ മെക്കാനിക്സിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട് അവർ ചില തംബ് റൂൾസും സിംപ്ലിഫിക്കേഷനുകളും കൊണ്ടുവന്നു പ്രാക്ടിക്കൽ ജിയോമെറ്ററിയിൽ ഫ്രാക്ചർ മെക്കാനിക്സ് ആശയങ്ങൾ പ്രയോഗിക്കുന്നതിന് അവ നിങ്ങളുടെ ജീവിതം ലളിതമാക്കും അതിനാൽ അവർ നൽകിയ വഴി ഇതാണ് അതിനാൽ നിങ്ങൾ കംപ്ലീറ്റ് കർവ് എടുക്കേണ്ടതില്ല നിങ്ങൾക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഭാഗം ഒരു കർവ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഭാഗം എന്നിവ ഉണ്ടാകും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കണ്ടെത്താനാകും ഏറ്റവും കുറഞ്ഞ പാനൽ വീതി എന്തായിരിക്കുമെന്ന് അത് നമ്മൾ കാണും ഞാൻ പാനൽ വിഡ്ത്തിൽ നിന്ന് ടാൻജന്റുകൾ വരയ്ക്കുന്നുവെന്ന് കരുതുക ഒരു പാനൽ വിഡ്ത്തിൽ നിങ്ങൾക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രമേയുള്ളൂ കണ്ടെത്തുക നിങ്ങൾക്ക് കർവ്ഡ് ഭാഗങ്ങളൊന്നും ഉണ്ടാകില്ല അതിനാൽ എന്താണ് മിനിമം പാനൽ വിഡ്ത് മൂല്യമെന്ന് ഇത് നിർണ്ണയിക്കുന്നു അതിനാൽ ഫ്രാക്ചർ ടഫ്നെസ്സ് ടെസ്റ്റിംഗ് നടത്തുന്നതിന് നിങ്ങൾക്ക് മിനിമം പാനൽ വിഡ്ത്തിനായി അത് ആവശ്യമാണ് അതിനെക്കാൾ വലുതായിരിക്കണം ഈ മിനിമം പാനൽ വിഡ്ത് എന്നത് 27 ബൈ 2 പൈ ഗുണം KIC ഡിവൈഡഡ് ബൈ സിഗ്മ ys ഹോൾ സ്ക്വയേർഡ് ആയി നൽകിയിരിക്കുന്നു അതിനാൽഎന്താണ് ഇവിടെ സമ്മറി W മിനിമം എന്നത് റെസിഡ്യൂൽ സ്ട്രെങ്ത് ഡയഗ്രാം ബാധകമാകുന്ന മിനിമം പാനൽ വിഡ്ത് ആണ് കാരണം ആത്യന്തികമായി ഡിസൈനിനായി ഫ്രാക്ചർ മെക്കാനിക്സ് ആശയങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് റെസിഡ്യൂൽ സ്ട്രെങ്ത് ഡയഗ്രാം ലഭിക്കേണ്ടതുണ്ട് നിങ്ങൾ എലാസ്റ്റോപ്ലാസ്റ്റിക് അനാലിസിസിലേക്ക് പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈയില്യർ അസ്സെസ്മെന്റ് ഡയഗ്രം ഉണ്ടാകും അവയെ FAD എന്ന് വിളിക്കുന്നു ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് റെസിഡ്യൂൽ സ്ട്രെങ്ത് ഡയഗ്രാം ഉണ്ടാകും നിങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കാൻ കഴിഞ്ഞുവെന്ന് കരുതുന്നു ഇത് വളരെ ലളിതമാണ് നിങ്ങൾ ആശയം അപ്പ്റിഷിയേറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉള്ള മിനിമം പാനൽ വിഡ്ത് ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തുക ഇത് നിർദ്ദേശിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് അതിനേക്കാൾ നീളമുള്ള ഒരു പാനൽ ആവശ്യമാണ് നിങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഡയഗ്രം നിർമ്മിക്കുന്നത് വളരെ ലളിതമാണ് എക്സ്പിരിമെന്റൽ വാലിഡേഷൻ ഇപ്പോൾ നമ്മൾ നോക്കേണ്ട പ്രധാന വശം ഇത് ന്യായമാണോ കാണുക ആളുകൾ ഏതെങ്കിലും എംപിരിക്കൽ അപ്പ്റോച്ച് വരുത്തുമ്പോൾ നിങ്ങൾക്കത് ന്യായീകരിക്കാൻ കഴിയുന്ന ഏക മാർഗ്ഗം യഥാർത്ഥ പരിശോധനകൾ നടത്തുക എന്നതാണ് നിങ്ങളുടെ പരിശോധനാ ഫലങ്ങൾ ഈ പാറ്റേൺ പിന്തുടരുന്നുണ്ടോയെന്ന് കാണുക ഇത് പിന്തുടരുന്നിടത്തോളം കാലം ഇത് നിങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് വിശകലനമായി അംഗീകരിക്കാകുന്നതാണ് ഇത് ആളുകൾക്ക് ലഭിച്ചു കൂടാതെ എനിക്ക് അലുമിനിയം അലോയ് 2219 നായി ഒരു റിസൾട്ട് ഉണ്ട് ഞാൻ കരുതുന്നു നിങ്ങൾ x ആക്സിസ് വരയ്ക്കുക ഇത് ക്രാക്ക് ലെങ്ത് നൽകുന്നു നിങ്ങൾക്ക് y ആക്സിസ്സിൽ സ്ട്രെസ് ലെവലുകൾ ഉണ്ട് ഈ പോയിന്റുകൾ വരച്ചിരിക്കുന്നു അതിലൂടെ കടന്നുപോകുന്ന ഒരു ലൈൻ ഉണ്ട് ഈ അലോയ്ക്കുള്ള KIC 113 MPa റൂട്ട് മീറ്ററാണ് ഫെഡെർസന്റെ സമീപനം ഉപയോഗിച്ച് വ്യത്യസ്ത പാനൽ വിഡ്ത്തിനായി നിങ്ങൾക്ക് ടാൻജെന്റുകൾ വരയ്ക്കാം എക്സ്പിരിമെന്റിൽ നിന്ന് ചില ഡാറ്റകളും എക്സ്പിരിമെന്റിലെ ഈ ലൈയനുകളുമായി പൊരുത്തപ്പെടുന്നതായി ആളുകൾ കണ്ടെത്തി ഇത് ASTM ൽ നിന്നുള്ള കോർട്ടേസി ആണിത് അതിനാൽ ഇത് എഞ്ചിനീയറിംഗ് വിശകലനത്തിനായുള്ള ഫെഡെർസന്റെ സമീപനം ന്യായമായും സ്വീകാര്യമാണ് എന്ന ജെസ്റ്റിഫിക്കേഷൻ നൽകുന്നു നമുക്ക് അത് തുടരാം എങ്ങനെയെങ്കിലും ഫ്രാക്ചർ മെക്കാനിക്സിൽ നിങ്ങൾ നേടിയ അറിവ് എന്തുതന്നെയായാലും നിങ്ങൾക്ക് അത് ഫീൽഡ് ആപ്ലിക്കേഷനിലേക്ക് വിവർത്തനം ചെയ്യാൻ കഴിയണം അതിനാൽ നിങ്ങൾ ചില എഞ്ചിനീയറിംഗ് ഏകദേശങ്ങൾ നടത്തേണ്ടതുണ്ട് അത് ഫെഡെർസന്റെ വിശകലനം മനോഹരമായി ചെയ്യുന്നു ഇത് ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിനെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചയുടെ അവസാനത്തിലേക്ക് കൊണ്ടുവരുന്നു ഇപ്പോൾ നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് നീങ്ങുന്നു Conventional Fatigue Design കോൺവെൻഷണൽ ഫാറ്റിഗ് ഡിസൈൻ ഇപ്പോൾ നമ്മൾ ക്രാക്ക് ഓർഗനൈസേഷനെക്കുറിച്ചും ലൈഫ് എസ്റ്റിമേഷനെക്കുറിച്ചും ഉള്ള അധ്യായത്തിലേക്ക് നീങ്ങുന്നു നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് കോൺവെൻഷണൽ ഫാറ്റിഗ് ഡിസൈൻ എന്താണ് എന്ന്നോക്കുന്നത് നല്ലതാണ് നിങ്ങൾക്കറിയാം പല ഘടനകൾക്കും വേരിയബിൾ ലോഡിംഗ് അനുഭവപ്പെടുന്നു വളരെ കുറച്ച് ഘടനകൾക്ക് മോണോടോണിക് ലോഡിംഗ് ഉണ്ട് അതിനാൽ വേരിയബിൾ ലോഡിംഗ് കാരണം ഘടനയുടെ പ്രതികരണം നിങ്ങൾ ഉൾക്കൊള്ളണം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ മോഡലിംഗിൽ ഒന്ന് ലോഡ് സൈക്ലിക്കലി വ്യത്യാസപ്പെടുന്നു എന്നതാണ് പിന്നീട് നിങ്ങൾ ഫോറിയർ സീരീസ് അനാലിസിസ് കൊണ്ടു കോംപ്ലിക്കേറ്റഡ് ലോഡിംഗ് എക്സ്പ്രെസ് ചെയ്യുക തുടർന്ന് ഹാർമോണിക്സ് സിറ്റുവേഷനിൽ കൈകാര്യം ചെയ്യുക കോൺവെൻഷണൽ ഫാറ്റിഗ് ഡിസൈനിൽ നിങ്ങൾ എന്തുചെയ്യും നിങ്ങൾ S N കർവിന്റെ സഹായം സ്വീകരിക്കും തന്നിരിക്കുന്ന മെറ്റീരിയലിനായി S N കർവിനായി തിരയുക അതിൽ നിന്ന് ഒരു ഡിസൈൻ ലോഡ് അല്ലെങ്കിൽ സ്ട്രെസ്സിന്റെ ലൈഫ് എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ എൻഡ്യൂറൻസ് ലിമിറ്റ് അടിസ്ഥാനമാക്കി തിരഞ്ഞെടുക്കുക നിങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് നിങ്ങൾ ഓർമ്മിക്കുക ആധുനിക ഗവേഷണങ്ങൾ പറയുന്നത് ഏതെങ്കിലും മെറ്റീരിയലിനും എൻഡ്യൂറൻസ് ലിമിറ്റ് പോലെ ഒന്നുമില്ല സ്ട്രെസ്സിന്റെ ചില വാല്യൂവിൽ സൈക്ലിക്കൽ സ്ട്രെസ് മെറ്റീരിയൽ എല്ലായ്പ്പോഴും ഫൈയിൽ ആകുന്നു ഇത് ചെയ്യാൻ വളരെയധികം സമയമെടുത്തേക്കാം അതാണ് ആധുനിക ധാരണ പരമ്പരാഗതമായി നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു സൈക്ലിക്കൽ ലോഡിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെറ്റീരിയലിനായി S N കർവ് എടുത്ത് നിങ്ങളുടെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാറ്റ ഉചിതമായ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക കോൺട്രോൾഡ് ഫാറ്റിഗ് ടെസ്റ്റിലൂടെ മെറ്റീരിയലിന്റെ എൻഡ്യൂറൻസ് ലിമിറ്റ് നിർണ്ണയിക്കപ്പെടുന്നുവെന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സാധാരണയായി ടെസ്റ്റ് റിസൾട്ട് ലഭിക്കുന്നത് ഫുള്ളി റിവേഴ്സ്ഡ് റോട്ടെറ്റിങ് ബെൻഡിങ് സ്പെസിമെനുകൾക്കാണ് നിങ്ങൾക്ക് S N കർവ് നൽകിയാൽ ഡിഫോൾട്ട് സ്പെസിമെൻ കോൺഫിഗറേഷൻ ഫുള്ളി റിവേഴ്സ്ഡ് റോട്ടെറ്റിങ് ബെൻഡിങ് സ്പെസിമെനുകൾ ആണ് മറ്റേതൊരു സാഹചര്യത്തിനും ആ റിസൾട്ടിൽ നിങ്ങൾക്ക് അപ്പ്രോപ്രിയേറ്റ് കറക്ഷൻ ഫാക്ടർസ് കൊണ്ടുവരാം ആ റിസൾട്ട്സ് ഫാറ്റിഗ് ലിറ്ററേച്ചറിൽ നന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഈ പോയിന്റിൽ ഞാൻ എംഫസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു ഫാറ്റിഗ് ടെസ്റ്റിൽ നിങ്ങൾ എന്തുചെയ്യും നിങ്ങൾക്ക് നാല് പോയിന്റ് ബെൻന്റ് സ്പെസിമെനുണ്ട് നിങ്ങൾ ലോഡുകൾ പ്രയോഗിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കുക സ്പെസിമെൻ ബ്രേക്ക് ചെയ്യുമ്പോൾ സൈക്കിളുകളുടെ എണ്ണം എന്താണ് സർക്യൂട്ട് ഡയഗ്രം പോലും അങ്ങനെയാണ് ഡിസൈൻ ചെയ്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമാണ് സൈക്ലിക്കൽ സ്ട്രെസിന്റെ എന്ത് വാല്യൂവിലും സൈക്കിളുകളുടെ എണ്ണത്തിലും സ്പെസിമെൻ ബ്രേക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു ക്രാക്ക് ഉള്ളപ്പോൾ എന്തുസംഭവിക്കുന്നു ക്രാക്ക് എങ്ങനെ പ്രോസിഡ് ചെയ്യുന്നു തുടങ്ങിയവ നിങ്ങൾ നിരീക്ഷിക്കുന്നില്ല ഇതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾ ഒരു ഫാറ്റിഗ് ടെസ്റ്റിൽ നിന്ന് ഡാറ്റ ശേഖരിച്ചു ഒരു സാധാരണ സ്റ്റീലിനുള്ള പ്രശസ്തമായ S N ഡയഗ്രം നൽകിയിരിക്കുന്നു ഇത് ഒരു ലോഗ് ലോഗ് പ്ലോട്ടാണ് എന്താണ് നൽകിയിരിക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് സ്കേറ്റർ ഉണ്ട് പ്രോപ്പർ ആയി നടത്തിയ ഏതൊരു ടെസ്റ്റിലും സ്കേറ്റർ ഉണ്ടാകാം ഫ്രാക്ചർ മെക്കാനിക്സ് ബേസ്ഡ് ഡിസൈനിനായി ഉത്തരം നൽകേണ്ട ചോദ്യങ്ങൾ നിങ്ങൾ ലീസ്സ്റ്റ് എക്സ്സ്പെക്റ്റഡ് ലൈഫ് N നു വേണ്ടി ഒരു ലൈൻ വരയ്ക്കുക അതിന്റെ ആൾട്ടർനേറ്റീവ് സ്ട്രെസ് S ആയി നൽകിയിരിക്കുന്നു നിങ്ങൾ കണ്ടെത്തേണ്ടത് എന്താണ് എൻഡ്യൂറൻസ് ലിമിറ്റ് എന്നതാണ് ഒരു കൺവെൻഷണൽ ഫാറ്റിഗ് ടെസ്റ്റ് അപ്പ്റോച്ചിൽ നിങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോയത് നിങ്ങൾ ഫാറ്റിഗ്സ് ബേയിസ്ഡ് ഡിസൈൻ മാത്രം ചെയ്യും ഈ നിമിഷം ഞാൻ ഫ്രാക്ചർ മെക്കാനിക്സിലേക്ക് വരുന്നു ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നു നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് ക്രാക്ക് ഗ്രോത്തിന്റെ ഒരു മെക്കാനിസം ഫാറ്റീഗ് ആണ് സർവീസിനിടയിൽ ക്രാക്ക് ഗ്രോ ചെയ്യുന്നു അതിനാൽ ഫ്രാക്ചർ മെക്കാനിക്സ് സാഹചര്യത്തിൽ എനിക്ക് ഫാറ്റീഗ് ക്രാക്ക് ഗ്രോത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു NDT രീതി ഉണ്ടെന്ന് കരുതുക അത് ക്രാക്ക് കണ്ടെത്തുന്നു ഒരു ഡിസൈനർ എന്ന നിലയിൽ ഈ സാഹചര്യത്തോട് എങ്ങനെ പ്രതികരിക്കണം നിങ്ങൾ ഒരു ക്രാക്ക് കണ്ടാൽ അപ്പോൾ സ്പെസിമെൻ ഉപേക്ഷിക്കുക സ്ട്രക്ച്ചർ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങൾ തിരുത്തൽ നടപടികൾ ചെയ്യുക ഇത് ശാസ്ത്രീയ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങൾക്ക് റാൻഡം ജഡ്ജ്മെൻറ് പറയാൻ കഴിയില്ല ഉത്തരം നൽകേണ്ട ചോദ്യങ്ങൾ കംപോണൻന്റ് അല്ലെങ്കിൽ മെഷീൻ പ്രവർത്തിപ്പിക്കുന്നത് സുരക്ഷിതമാണോ സുരക്ഷിതമാണെങ്കിൽ എത്ര കാലം ക്രാക്ക് ഗ്രോത്ത് നിരീക്ഷിക്കാൻ കഴിയുമോ അതിലൂടെ ഒരാൾക്ക് കംപോണൻന്റ് ഉപേക്ഷിക്കാനോ ക്യാറ്റസ്ട്രോപ്പിക് ഫൈയില്യർ സംഭവിക്കുന്നതിനുമുമ്പ് മെഷീൻ നിർത്താനോ കഴിയുമോ നമ്മൾ മുമ്പ് ചോദിച്ച ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒന്ന് ഒരു ഫ്രാൿചർ മെക്കാനിക്സ് കോഴ്സ് എന്ത് സഹായിക്കും ആ ചോദ്യങ്ങൾ നമ്മൾ വീണ്ടും ചോദിക്കുന്നു നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് ഇവ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ചും നിങ്ങൾ ഒരു വിമാനം നോക്കുകയാണെങ്കിൽ ഓരോ ടേക്ക് ഓഫും ലാൻഡിംഗും ഒരു സൈക്കിളായി കണക്കാക്കപ്പെടുന്നു ലോങ് ഫ്ലൈറ്റിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നാൽ ടേക്ക് ഓഫ് ലാൻഡിംഗ് എന്നിവ വളരെ നിർണായകമാണ് നിങ്ങൾക്ക് അറിയാം ഓരോ ടേക്ക് ഓഫും ലാൻഡിംഗും നിങ്ങൾക്ക് വിമാനത്തിന്റെ ചില വശങ്ങൾ പരിശോധിക്കാൻ എഞ്ചിനീയർമാർ ഉണ്ടാകും നിരവധി മണിക്കൂർ പറക്കലിനുശേഷം ഏതൊക്കെ ഘടകങ്ങളാണ് നോക്കേണ്ടതെന്ന് അവർക്ക് ഒരു ഷെഡ്യൂൾ ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് ഒരു ഷെഡ്യൂൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനാൽ യാത്രക്കാർക്കും സ്ട്രക്ച്ചർറിനും സുരക്ഷ നൽകുന്ന ഒരു ഷെഡ്യൂൾ നിങ്ങൾ വികസിപ്പിക്കുക അതിന് നിങ്ങൾക്ക് ഒരു ശാസ്ത്രീയ അടിത്തറ ഉണ്ടായിരിക്കുകയും ഈ ഷെഡ്യൂളുകൾ തീരുമാനിക്കുകയും വേണം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഒരു ഫാറ്റിഗ് ടെസ്റ്റ് റിസൾട്ട് തീർച്ചയായും അനുയോജ്യമല്ല അതിനാൽ നിങ്ങൾ തീർച്ചയായും അഡിഷണൽ ടെസ്സിനായി പോകേണ്ടതുണ്ട് അതിനായി അധിക ഡാറ്റ ശേഖരിക്കുക ഡാറ്റ ശേഖരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് എന്തു ചെയ്യും ഡാറ്റ ഒരു ഫോമിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയും ഡാറ്റ അവതരിപ്പിക്കുന്നതിൽ ഒരുതരം ഇൻജെന്യുയിറ്റി ഉണ്ടായിരിക്കണം അതാണ് അടുത്ത ക്ലാസിൽ നിങ്ങൾ കാണുന്നത് ഈ ഡാറ്റ ഉപയോഗപ്പെടുത്തുന്നതിൽ പാരീസിന്റെ സംഭാവനയെന്താണെന്ന് നമ്മൾ കാണും ക്രാക്ക് ഗ്രോത്ത് കർവുകൾ എന്നറിയപ്പെടുന്ന കാര്യങ്ങളും നമ്മൾ പരിശോധിക്കും ശേഖരിച്ച വലിയ ഡാറ്റ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതിന് അതിനെ ശരിയായി ഉപയോഗിക്കുകയും അവതരിപ്പിക്കുകയും വേണം അതിനാൽ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പ്ലെയിൻ സ്ട്രെസ് ഫ്രാക്ചർ ടഫ്നെസ്സ് ടെസ്റ്റിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു നമ്മൾ എടുത്തു കാണിച്ച പ്രധാന കാര്യം നിങ്ങൾക്ക് ഒരു ഫാറ്റീഗ് ആവശ്യമില്ല ഒരു സോ കട്ട് ആണെങ്കിൽ പോലും ഇത് സംഭവിക്കും സോ ഏത് വലുപ്പത്തിൽ എടുക്കുന്നതിന് ഇത് ഒരു അലവൻസും നൽകില്ല റൂട്ട് റേഡിയസ് എന്തായിരിക്കണം എന്നതിന് ഒരു നിയന്ത്രണമുണ്ട് അതിനാൽ നിങ്ങളുടെ സോ എത്ര മികച്ചതായിരിക്കണമെന്ന് ഇത് നിർണ്ണയിക്കുന്നു സ്ഥിരമായി നിങ്ങൾക്ക് സ്റ്റേബിൾ ഫ്രാക്ചർ ഉണ്ടാകുകയും തുടർന്ന് അൺസ്റ്റേബിൾ ഫ്രാക്ചർ ഉണ്ടാകുകയും വേണം ആളുകൾ ഈ പ്ലെയിൻ സ്ട്രെസ് ഫ്രാക്ചർ ടഫ്നെസ് ടെസ്റ്റിംഗിന്റെ ഒരു വീഡിയോ റെക്കോർഡ് ഉണ്ടാക്കുന്നു അതിനാൽ സ്റ്റേബിൾ ഫ്രാക്ചർകൾ ഇല്ലെങ്കിൽ അവർ ടെസ്റ്റ് ഉപേക്ഷിക്കും പാനൽ വിഡ്ത്തും ഒരു പങ്കുവഹിക്കുന്നതായി നമ്മൾ കാണുന്നു ഈ ടെസ്റ്റിംഗിന്റ് ഫലങ്ങളിലൊന്ന് ഫെഡെർസൻ ശുപാർശ ചെയ്യുന്ന റെസിഡ്യൂവൽ സ്ട്രെങ്ത് ഡയഗ്രം ആണ് നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്തു അപ്പറന്റ് ഫ്രാക്ചർ ടഫ്നെസ്സ് എന്താണ് ഫെഡെർസന്റെ എഞ്ചിനീയറിംഗ് അനാലിസിസിന്റെ എക്സ്പിരിമെന്റൽ ജസ്റ്റിഫിക്കേഷൻ നമ്മൾ പരിശോധിച്ചു അവസാനമായി നമ്മൾ പരിശോധിച്ചു ഒരു കൺവെൻഷണൽ ഫാറ്റീഗ് ബേസ്ഡ് ഡിസൈനിൽ സ്വീകരിച്ച അടിസ്ഥാന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ഫ്രാക്ചർ മെക്കാനിക്സ് ബേസ്ഡ് ഡിസൈനിൽ ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഉത്തരം ലഭിക്കേണ്ടത് നമുക്ക് ഉപയോഗിക്കാൻ ഉപയോഗപ്രദമായ രീതിയിൽ അഡിഷണൽ ഡാറ്റ കളക്ഷനും ആ ഡാറ്റയുടെ അവതരണവും ആവശ്യമാണ് ഇതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം